വീണ്ടും സ്വാഗതം ഇപ്പോൾ Y lrmΔ പരിവർത്തനത്തെ കുറിച്ച് നാം പറഞ്ഞല്ലോ അത് lrmΔ പരിവർത്തനം അല്ല ഇവിടെ നാം എങ്ങനെ ഇത് ഒരുമിപ്പിക്കും അത് എങ്ങനെ എന്ന് നോക്കുക ഈ സർക്യൂട്ടിൽ നോക്കുക ഇതൊരു ബ്രിഡ്ജ് സർക്യൂട് ആണ് ഈ ഫിഗർ 40 ൽ തന്നിരിക്കുന്നത് ഇവിടെ ഈ റെസിസ്റ്ററുകൾ ഈ R 6 ലൂടെ എങ്ങനെ കമ്പൈൻ ചെയ്യും ഇതൊരു ലളിതമായ ബ്രിഡ്ജ് സർക്യൂട് ആണ് ഇവിടെ ഉള്ള റെസിസ്റ്റൻസ് എന്നത് R a R 4 R5 R 6 എന്നിവ ആണ് അപ്പോൾ ഈ R 6 ലൂടെ ഈ റെസിസ്റ്ററുകൾ എങ്ങനെ കമ്പൈൻ ചെയ്യും ഇവിടെ നമുക്ക് സീരീസ് പാരലൽ അപ്ലൈ ചെയ്യുക എന്നത് ബുദ്ധിമുട്ടാണ് ഈ റെസിസ്റ്ററുകളുടെ കണക്ഷൻ അങ്ങനെ ആണ് അതിനാൽ ഇതിനെ നാം ലളിതമാക്കേണ്ടതുണ്ട് നാം ഇവിടെ ഈ ടെർമിനലിൽ ഇക്വിവലെന്റ് നെറ്റ്വർക്ക് ആണ് പരിഗണിക്കേണ്ടത് ഉദാഹരണത്തിന് ഇത് നോക്കുക ഞാൻ ടെർമിനൽ എന്നുദ്ദേശിച്ചതു ഈ രണ്ടെണ്ണം ആണ് ഈ രണ്ടു ടെർമിനലുകൾ നോക്കുക ഇത് കോമൺ ആണ് ഇത് ഒരു ടെർമിനൽ പിന്നെ ഇത് മറ്റൊന്ന് പിന്നെ ഈ 2 4 എന്നിവ കോമൺ ടെർമിനൽ ആണ് അതിനാൽ ഇത് 4 ടെർമിനൽ അല്ല ഇത് ഒരു 3 ടെർമിനൽ ആണ് ഇവിടെ ഈ റെസിസ്റ്ററുകൾ ഇങ്ങനെ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതേ സർക്യൂട് തന്നെ വലിച്ചു നീട്ടിയാൽ നമുക്ക് T നെറ്റ്വർക്ക് ആണ് എന്ന് കരുതാം എന്തെന്നാൽ ഇത് R 1 R2 പിന്നെ ഇത് R 3 അപ്പോൾ ഈ പോയിന്റ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ നമുക്ക് ഇത് ഇങ്ങനെ വരയ്ക്കാം അതിനാൽ ഇതിനെ T നെറ്റ്വർക്ക് എന്ന് ചിലപ്പോൾ വിളിക്കാം അത് തന്നെ ആണ് സ്റ്റാർ ഇത് രണ്ടും ഒന്ന് തന്നെ ആണ് അടിസ്ഥാനപരമായി ഇതൊരു 3 ടെർമിനൽ നെറ്റ്വർക്ക് ആണ് ഇത് ഒരു കോമൺ ടെർമിനൽ ആയ 2 ആണ് പിന്നെ ഈ 4 ഉം ഒരു കോമൺ ടെർമിനൽ ആണ് ചിലപ്പോൾ ഇതിനെ y നെറ്റ്വർക്ക് എന്നും വിളിക്കാറുണ്ട് അത് തന്നെ ആണ് T നെറ്റ്വർക്ക് ഇനി അടുത്ത് Δ അല്ലെങ്കിൽ പൈ നെറ്റ്വർക്ക് ഇതിനെ ചിലപ്പോൾ Δ എന്ന് പറയാം ഇവിടെയും 2 ഉം 4 ഉം കോമൺ ടെർമിനൽ ആണ് ഇവിടെയും 2 ഉം 4 ഉം കോമൺ ടെർമിനൽ ആണ് അതിനാൽ ഇത് അടിസ്ഥാന പരമായി 3 ടെർമിനൽ ആണ് ഇത് നാം ഇവിടെ 2 4 മാർക്ക് ചെയ്യുന്നതാണ് എന്നിരുന്നാലും ഇത് ഒരു 3 ടെർമിനൽ അത് നാം വീണ്ടും ചിലയിടത്തു പരാമര്ശിക്കുന്നതാണ് ഇത് ഒരു പൈ നെറ്റ്വർക്ക് പോലെ തോന്നുന്നതാണ് ഇത് ഒരു കോമൺ പോയിന്റ് ആണ് ഇത് ഒരു പൈ നെറ്റ്വർക്ക് പോലെ തോന്നും അത് രണ്ടും ശരി തന്നെ ആണ് ഇത് ചില സമയങ്ങളിൽ Δ എന്ന് വിളിക്കാറുണ്ട് ചിലപ്പോൾ പൈ നെറ്റ്വർക്ക് രണ്ടാണെങ്കിലും അത് ശരിയാണ് അതിനാലാണ് ഇത് ഇവിടെ Δ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത് ഇവിടെ ചില സമയങ്ങളിൽ Δ ലേക്കോ അല്ലെങ്കിൽ അതിൽ നിന്നോ കൺവെർഷൻ ആവശ്യമായി വന്നേക്കാം നമുക്ക് ഇപ്പോൾ ഉള്ള Δ നെറ്റ്വർക്ക് ലേക്ക് മറ്റൊരു നെറ്റ്വർക്ക് ചേർത്ത് വക്കേണ്ടതായുണ്ട് എന്നിട്ടു അതിന്റെ ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് എത്രയെന്നും കണക്കു കൂട്ടേണ്ടതുണ്ട് ഈ ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് എത്രയെന്നു കണ്ടുപിടിക്കാനായി ഈ T ൽ എങ്ങനെ എടുത്തോ അതുപോലെ അതെ നോഡുകളിൽ നിന്നും തന്നെ ഈ Δ യിലും ഉപയോഗിക്കാം അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാം ഉദാഹരണത്തിന് ഈ ടെർമിനൽ 1 2 എന്നിവ പരിഗണിക്കുക ഈ 2 ഉം 4 ഉം കോമൺ ആണ് അതിനാൽ ഞാൻ ഇവിടെ ഈ 2 ഉം 4 ഉം കോമൺ ആക്കുന്നു അപ്പോൾ ഈ സൈഡ് എന്തെന്ന് മറന്നു കളഞ്ഞേക്കുക ഇത് r a 2 ആക്കുക ഇത് ഓപ്പൺ ആയാൽ ഇതും ഓപ്പൺ ആകും അപ്പോൾ ഈ a 2 എന്നത് R a എന്നാകും എന്തെന്നാൽ ഇത് R a ആണ് അപ്പോൾ ഈ a 2 എന്നത് a R a എന്നായി മാറും അത് നോക്കിയാൽ a 2 lrm a R a എന്നായി മാറുന്നു ഇത് ഈ കണക്ഷൻ a 2 a R a വേണ്ടിയാണു ഇനി നോക്കിയാൽ ഇവിടെ വീണ്ടും lrmΔ കയറി വരുന്നു ഇനി a 2 lrmΔ ലേക്ക് വന്നാൽ നമുക്ക് അതിനെ പറ്റി മറന്നു കളയാം പിന്നെ ഈ സൈഡിൽ ഒന്നും കണക്ട് ഷെയ്തിട്ടില്ല

അതിന്റെ അർത്ഥ൦ ഇങ്ങോട്ടു നോക്കിയാൽ കാണാം ഇവിടെ ഈ lrmΔ യിൽ ഈ 3 2 കണ്ടെത്താൻ നോക്കുക അപ്പോൾ ഈ Rc പിന്നെ R a എന്നിവ സീരീസ് ആണ് അപ്പോൾ അത് Ra Rc ആണ് ഈ Ra Rc എന്നത് ഈ Rb ക്കു പാരലൽ ആണ് അതിന്റെ അർഥം നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം എന്നതും കൂടെ ആണ് അത് Ra Rc ആണ് ഇത് രണ്ടും സീരീസ് ആണ് ഈ Ra Rc എന്നത് ഈ Rb ക്കു പാരലൽ ആയി മാറുന്നു അപ്പോൾ ഈ lrmΔ എന്നത് Ra Rc Rb ഡിവൈഡഡ് ബൈ Ra Rc Rb എന്നതാണ് നമ്മൾ ഈ a 2 എടുക്കുന്ന നിമിഷം തന്നെ മറ്റൊന്നും നിങ്ങൾ ഇവിടെ പരിഗണിക്കരുത് ഇത് Ra യും Rc യും ആണ് പിന്നെ ഈ Rc എന്നത് ഇവിടെ ഓപ്പൺ ആണ് അപ്പോൾ ഈ സൈഡിൽ ഒന്നുമില്ല ഈ Ra Rc എന്നിവ സീരീസ് ആണ് പിന്നെ അവ ഈ Rb ക്കു പാരലൽ ആണ് അതിനാൽ അത് Rb Ra Rc ഡിവൈഡഡ് ബൈ Rb Ra Rc ഞാൻ അത് ക്ലീൻ ആക്കുന്നു വീണ്ടും മുന്നോട്ടു പോകുന്നു ഇനി അതിലേക്കു വന്നാൽ സോറി നോക്കുക a 2 lrmΔ Rb പിന്നെ അത് Ra Rc ക്കു പാരലൽ ആണ് അത് അത് Rb Ra Rc ഡിവൈഡഡ് ബൈ Rb Ra Rc അത് രണ്ടും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെ ആണ് നമുക്ക് ഇവിടെ ഈ ഇക്വിവലെന്റ് ആണ് ഇവിടെ കണ്ടു പിടിക്കേണ്ടത് അതിനാൽ a 2 എന്നത് a R അത് Rb Ra Rc ബൈ Ra Rb Rc ഇതാണ് ഇക്വേഷൻ 42 ഈ 40 41 എന്നിവ തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇക്വേഷൻ Ra a R a ഇവയാണ് അതുപോലെ ഈ aa യും കിട്ടുന്നതാണ് ഈ സർക്യൂട്ടിലേക്കു വരിക ഇനി ഈ 3 a യിലേക്ക് വരിക ഈ 1 ഈ 3 എന്നിവ ഒന്ന് നോക്കുക ഇതിൽ നിന്നും ഈ 3 a കണ്ടു പിടിക്കുക ഇത് യഥാർത്ഥത്തിൽ 3 a ആണ് അത് മറ്റൊന്നുമല്ല ഈ a a ആണ് ഇതിന്റെ മറ്റേ സൈഡ് എന്നത് ഓപ്പൺ ആണ് അതിനാൽ ഇത് a a പിന്നെ ഇത് a a ഇനി ഈ lrmΔ ലേക്ക് തിരിച്ചു വരിക ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു നാം ഈ lrmΔ ലേക്ക് വരുന്നു ഞാൻ ഇത് അടയാളപ്പെടുത്തുന്നു ഈ Rc എന്നത് പുറത്തേക്കു വരുന്നു അതായതു ഇവിടെ Ra യും Rb യും സീരീസ് ആണ് അതിനാൽ a a lrmΔ r Ra Rb അതിനാൽ നമുക്ക് പറയാം ഈ 2 എണ്ണം എന്നത് സീരീസ് ആണ് അത് ഇവിടെ ഈ Rc ക്കു പാരലൽ ആണ് അതിനാൽ ഇത് Ra Rb ആണ് അത് കാര്യമില്ല ഇവിടെ ഞാൻ അത് എഴുതുന്നു അപ്പോൾ അത് Rc ഡിവൈഡഡ് ബൈ Ra Rb Rc എന്തെന്നാൽ ഈ 1 a എടുത്തപ്പോൾ ഈ Rb യും പിന്നെ Rc c Ra എന്നിവയും സീരിസ് ആയിരുന്നല്ലോ ഞാൻ ഇതു ക്ലീൻ ആക്കുന്നു ഇവിടെ ഈ a a Ra യും Rb സീരീസ് ആണ് അത് Ra Rb പിന്നെ Ra Rb അത് Rc ക്കു പാരലൽ ആണ് അതിനാൽ അത് lrmΔ എന്നത് Ra Rb Rc ഡിവൈഡഡ് ബൈ Ra Rb Rc അതിനാലാണ് ഈ ഇക്വേഷൻ ഇതുപോലെ a a a r Rc Ra Rb ബൈ Ra Rb എന്നെഴുതിയത് ഇതാണ് ഇക്വേഷൻ 43 അത് പോലെ 3 എന്നത് R a എന്നതും കണ്ടെത്താം ഈ പ്രവർത്തികൾ ആവർത്തിക്കേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കാനാകുന്ന കാര്യമാണ് ഈ lrmΔ യിലേക്ക് നോക്കിയാൽ മനസ്സിലാകും Rb Rc എന്നത് ഈ Ra ക്കു പാരലൽ ആണ് അപ്പോൾ ഈ Rb യും Rc യും സീരീസ് ആയിരിക്കും അപ്പോൾ Rb Rc Ra ഡിവൈഡഡ് ബൈ Ra Rb Rc ഈ ഇക്വേഷൻ 42 ലേക്ക് നോക്കിയാൽ പിന്നെ 43 യും 44 അപ്പോൾ അറിയില്ലാത്ത ഈ 3 ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടതാകുന്നു ഞാൻ ഇവിടെ ഈ ഉത്തരം നേരെ എഴുതുന്നു നിങ്ങൾക്കു വേണമെങ്കിൽ അത് സോൾവ് ചെയ്യാം അതിന്റെ ആവശ്യമില്ല ഈ ടെക്നിക് നേരത്തെ പറഞ്ഞതാണ് അത് ഓർമയിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ 42 43 പിന്നെ 44 എന്നിവ സോൾവ് ചെയ്താൽ Rc Ra ബൈ Ra Rb Rc പിന്നെ R a Ra Rb Ra Rb Rc എന്നിങ്ങനെ ആണ് ഇത് എങ്ങനെ ഓർത്തിരിക്കും എന്നത് നോക്കുക ഈ Δ എന്നത് ഈ Δ പരിവർത്തനത്തിലേക്കു തിരിച്ചു പോകുക ഇനി നോക്കുക a a R aപിന്നെ ഇത് Rb Rc Ra ഇത് ഞാൻ ഈ lrmΔ യുടെ മുളകിൽ വച്ചാൽ എങ്ങനെ ഇരിക്കും ഇത് മാച്ച് ചെയ്യുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഇതിലേക്ക് ഒന്നുകൂടെ നോക്കുന്നു a a R a ഇനി ഒന്ന് നോക്കുക ഇത് യഥാർത്ഥത്തിൽ R a ആണ് അതിനനുസരിച്ചു വേണം നാം ഇത് നോക്കാൻ അപ്പോൾ ഇത് r a പിന്നെ ഇത് lrmΔ അപ്പോൾ ഇത് Rb Rc Ra Rb Rc എന്നതാണ് അപ്പോൾ നാം ഈ R1 എടുക്കുമ്പോൾ അടുത്തുള്ള ഈ 2 ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ന്റെ പ്രോഡക്റ്റ് എടുക്കുക അതിനെ ഈ ആകെ തുക Ra Rb Rcഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ക്കാം അത് പോലെ ഇവിടെയും അടുത്തുള്ള ഈ 2 ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ന്റെ പ്രോഡക്റ്റ് എടുക്കുക Ra Rc അത് ഡിവൈഡഡ് ബൈ Ra Rb Rc അതുപോലെ R a അടുത്തുള്ള ഈ 2 ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ന്റെ പ്രോഡക്റ്റ് Ra Rb ഡിവൈഡഡ് ബൈ Ra Rb Rc ഇനി നാം ആ ഡെറിവേഷൻ ലേക്ക് പോയാൽ കാണാം a Rb Rc Ra Rb Rc a Ra Rb Rc R a Ra Rb Ra Rb rc എന്നതാണ് ഞാൻ ഇത് പറഞ്ഞു അടുത്തുള്ള ഈ 2 ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ന്റെ പ്രോഡക്റ്റ് അത് Ra Rb പിന്നെ എല്ലാ കേസിലും ഡിവിഷൻ എന്നത് Ra Rb Rc ആണ് പിന്നെ കോമൺ എന്നത് അടുത്തുള്ള 2 ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്നതാണ് അത് ഈ lrmΔ ൽ നമുക്ക് വേണ്ടതാണ് ഈ ഇക്വേഷൻ എന്നത് 45 46 പിന്നെ 47 എന്നിവ ആണ് ഇനി ചോദ്യം ഇതാണ് ഈ y പിന്നെ ഈ lrmΔ നെറ്റ്വർക്ക് കളുടെ കൂട്ടിച്ചേർക്കൽ എന്നത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നു ഞാൻ ഈ കാണിച്ചത് എന്ത് തന്നെ ആയാലും അടുത്തുള്ള 2 ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ന്റെ പ്രോഡക്റ്റ് ആയി Rb Rc ബൈ RaRbRc അത് പോലെ ഈ അടുത്തുള്ള 2 ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ന്റെ പ്രോഡക്റ്റ് എന്നത് Ra Rc Ra Rb Rc പിന്നെ Rc Ra Rb RaRb Rc ഈ ഇക്വേഷൻ 45 46 എന്നിവയിൽ എന്ത് തന്നെ എഴുതിയിരുന്നാലും ഓർക്കാൻ എളുപ്പമാണ് പിന്നെ ഒരു പുതിയതായി ചേർക്കപ്പെട്ട നോഡ് ഇവിടെ ഉണ്ട് അത് ന്യൂട്രൽ അത് നാം AC സർക്യൂട് പഠിക്കുമ്പോൾ പിന്നീട് കാണുന്നതാണ് ഇവിടെ അല്ല എന്നാൽ ഇവിടെ ഇത് Δ പരിവർത്തനമാണ് ഇനി t യിൽ നിന്നും Δ ലേക്ക് ഇനി ഈ a a R a ഇവിടെ ഉണ്ടെന്നു കരുതുക ഇനി എനിക്ക് ഈ Ra യുടെ എക്സ്പ്രെഷൻ ആണ് നമുക്ക് വേണ്ടത് ഇനി ഈ Rb യുടെ എക്സ്പ്രെഷൻ എന്താണ് പിന്നെ ഈ Rc യുടെ എക്സ്പ്രെഷൻ എന്താണ് ഇനി എന്താണ് വേണ്ടത് ഇനി ഈ t യിൽ നിന്നും lrmΔ യിലേക്ക് എങ്ങനെ പരിവർത്തനം ചെയ്യും എനിക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് ഞാൻ ചെയ്യേണ്ടത് ഇതാണ് അത് ഞാൻ ഒരു lrmΔ നെറ്റ്വർക്ക് ആയി പരിവർത്തനം ചെയ്യണം ഇനി ആ കേസിൽ എന്താണ് ചെയ്യുക ഇക്വേഷൻ 45 46 പിന്നെ 47 ൽ നിന്നും തുല്യമായ Δ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇവിടെ a a R a എന്നിവയുടെ എക്സ്പ്രെഷൻ ഉണ്ട് എന്താണ് നാം ചെയ്യേണ്ടത് ആദ്യം a a a R a R a a a a ഇതിന്റെ തുക കാണുക പിന്നെ a R a വച്ച് മൾട്ടിപ്ലൈ ചെയ്യക അങ്ങനെ ചെയ്താൽ a a R a R a a അപ്പോൾ നമുക്ക് Ra Rb Rc Ra Rb Rc Ra Rb Rc എന്ന് കിട്ടും അതിന്റെ സ്ക്വയർ അത് Ra Rb Ra Rb Rc ക്യാൻസൽ ആകും അത് പിന്നെ Ra Rb Rc Ra Rb Rc അതിനാൽ അങ്ങനെ എഴുതുന്നു ഇനി ഈ ഇക്വേഷൻ 48 നെ 2 വച്ച് ഡിവൈഡ് ചെയ്യുന്നു അതുപോലെ ഈ 45 46 പിന്നെ 47 എല്ലാ ഇക്വേഷനും ഡിവൈഡ് ചെയ്യുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ഈ ഇക്വേഷൻ 48 നെ ഈ 46 അങ്ങനെ ഓരോന്നും 45 46 പിന്നെ 47 അങ്ങനെ ഓരോന്നും വച്ച് ഡിവൈഡ് ചെയ്യുക ലളിതമായി ചെയ്യേണ്ട വഴി എന്നത് ഇതാണ് ഈ ഇക്വേഷൻ 48 നെ 45 46 പിന്നെ 47 അങ്ങനെ ഓരോന്നും വച്ച് ഡിവൈഡ് ചെയ്യുക ആദ്യം ഈ ഇക്വേഷൻ 48 നെ 45 വച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എന്ത് കിട്ടും നമുക്ക് Ra a a a R a R a a a ഈ Ra എന്നത് a a a R a R a a a പിന്നെ Rb a a a R a R a a അവസാനം Rc എന്നത് a a a R a R a a R a എന്നും കിട്ടും അത് പക്ഷെ എങ്ങനെ ഓർത്തിരിക്കും ഞാൻ അതിനെ ലഘൂകരിക്കുന്നു എല്ലാ കേസിലും ന്യൂമറേറ്റർ എന്നത് a a a R a R a a തന്നെ ആണ് ഈ Ra ക്കു a പിന്നെ Rb ഡിവൈഡഡ് ബൈ a പിന്നെ Rc ക്കു ആണേൽ ഡിവൈഡഡ് ബൈ R a ഇനി ഈ സർക്യൂട്ടിലേക്കു നോക്കിയാൽ നമുക്ക് പറയാം Δ പരിവർത്തനം ഇതിലേക്ക് നോക്കു ഇതിൽ Ra Rb പിന്നെ Rc ഏതിലാണെങ്കിലും ന്യൂമറേറ്റർ ഒന്ന് തന്നെ ആണ് ഈ Ra നോക്കുക ന്യൂമറേറ്റർ സെയിം ആണ് a a R a R a പിന്നെ r a a പിന്നെ a R a Rc a a ഇതെങ്ങനെ ഓർത്തിരിക്കും ചോദ്യം എന്നത് ഉദാഹരണത്തിന് ഞാൻ ആദ്യം ഈ Ra നോക്കുന്നു ഇവിടെ എന്താണ് ന്യൂമറേറ്റർ കോമൺ ആണ് അത് a a r a R a R a a പിന്നെ അത് ഡിവൈഡഡ് ബൈ ഈ Ra ഇനി എങ്ങനെ ലളിതമാക്കും വച്ച് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അത് a പിന്നെ ഇത് R a ബൈ a ഇത് R a അതിന്റെ അർഥം ഈ Ri എന്നത് എനിക്കെഴുതാനാകും a R a a R a a അതിന്റെ അർഥം ഈ Ri യിൽ നാം എന്താണ് ചെയ്തത് എന്ന് ഓർത്തിരിക്കുക അത് ലളിതമാണ് r a a R a R a 1 എന്നതിനെ ഈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് വച്ച് ഡിവൈഡ് ചെയ്യുക മറ്റൊരു വഴി എന്നത് Ra ഈ അടുത്തുള്ള ബ്രാഞ്ചുകളുടെ തുക a R a a R a ഡിവൈഡഡ് ബൈ ഈ ഓപ്പോസിറ്റ് ബ്രാഞ്ച് ഇങ്ങനെ ആണ് നാം ഓർത്തിരിക്കേണ്ടത് ഇതാണ് ഏറ്റവും ലളിതമായ രീതി ഇവിടെ ന്യൂമറേറ്റർ എന്നത് കോമൺ ആണ് അപ്പോൾ Ra എന്നത് പരിഗണിക്കുമ്പോൾ ഈ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ a അതുപോലെ ഈ Rb എന്നത് കണ്ടെത്താൻ നോക്കുക ഇവിടെയും ഈ ന്യൂമറേറ്റർ കോമൺ ആണ് അപ്പോൾ അത് ഡിവൈഡഡ് ബൈ r a അതുപോലെ Rc എടുക്കുക ഈ കോമൺ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ R a വളരെ ലളിതമാണ് അല്ലെങ്കിൽ ഈ Ra എന്നത് a R a R a ബൈ a അത് പോലെ ഈ R b യും Rc യും എഴുതാനാകും ഇത് വളരെ എളുപ്പമാണ് എപ്പോഴും ഓർക്കുക ഇതാണ് ഏറ്റവും ലളിതം എന്തെന്നാൽ ഈ പ്രോഡക്റ്റ് a a a R a R a a എന്നത് എല്ലായിടത്തും ഒരേ പോലെ എടുക്കുക ഈ Ra Rb Rc ഏതായാലും ന്യൂമറേറ്റർ കോമൺ ആണ് ഈ Ra പരിഗണിക്കുമ്പോൾ ഉള്ള ഓപ്പോസിറ്റ് ബ്രാഞ്ച് എന്നത് ഇതാണ് പിന്നെ അതുപോലെ Rb അങ്ങനെ എന്താണെങ്കിലും ഡിവൈഡഡ് ബൈ അതിന്റെ ഓപ്പോസിറ്റ് ബ്രാഞ്ച് അതുപോലെ ഈ Rc ഈ കോമൺ ന്യൂമറേറ്റർ ബൈ R a ഇത് ഏറ്റവും ലളിതമാണ് ഇത് മനസ്സിലാക്കി എന്ന് കരുതുന്നു അത് സോൾവ് ചെയ്തു നോക്കുക ഞാൻ അത് ക്ലീൻ ആക്കുന്നു ഇതെല്ലാം തന്നെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അതാണ് t യിൽ നിന്നും lrmΔ യിലേക്കുള്ള പരിവർത്തനം ഈ lrmΔ നെറ്റ്വർക്ക് ൽ ഉള്ള ഓരോ റെസിസ്റ്ററും ഞാൻ ഇതിവിടെ അടിവരയിട്ടു വച്ചിരിക്കുന്നു എല്ലാ സാധ്യത പ്രൊഡക്ടുകളുടെ തുകയെ ഈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് വച്ച് ഡിവൈഡ് ചെയ്യുന്നു ഈ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ആണ് ഇത് ഇത് ഈസി ആണ് ഇനി ഈ കേസിൽ ഈ Δ നെറ്റ്വർക്ക് എന്നത് ബാലൻസ് ആണെന്ന് പറയണമെങ്കിൽ a a R a R lrm ആയിരിക്കണം എല്ലാം ഒന്ന് തന്നെ ആണെങ്കിൽ പറയാം ഈ നെറ്റ്വർക്ക് എന്നത് ബാലൻസ് ആണ് അപ്പോൾ ഈ Ra Rb Rc R lrmΔ ആണ് ഇതാണ് ഇക്വേഷൻ 5a ഈ അവസ്ഥയിൽ എല്ലാ റെസിസ്റ്റൻസ് R ഉം നാം സെയിം ആക്കിയാൽ അതായത് R lrmΔ ആക്കിയാൽ ഈ പരിവർത്തനം നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടു പിടിക്കാം അത് R lrmΔ ബൈ a ആണ് അത് നമുക്ക് lrmΔ ആയി മാറ്റാനാകും ഇവിടെ R എന്നത് lrmΔ ബൈ a ആണ് ഈ ഇക്വേഷനിൽ ഇത് ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണോ അതാണ് R lrmΔ a R ഗുണനം അതിനാൽ ഇത് എല്ലാം a a R a Ra Rb Rc എല്ലാം ഒന്ന് തന്നെ ആണ് അപ്പോൾ ഇത് ഇവിടെ കൊടുത്താൽ നമുക്ക് വേണ്ടത് കിട്ടും ഇനി ഈ lrmΔ എന്നത് അങ്ങനെ തന്നെ നില നിൽക്കാം അല്ലെങ്കിൽ മറ്റെന്തിന്റെയെങ്കിലും ഭാഗവും ആകാം ഇവ 3 ഫേസ് നെറ്റ്വർക്ക് ൽ ഉപയോഗിക്കുന്നു പിന്നെ മാച്ചിങ് നെറ്റ്വർക്ക് എലെക്ട്രിക്കൽ ഫിൽറ്റർ നാം ഈ 3 ഫേസ് നെറ്റ്വർക്ക് പഠിക്കുമ്പോൾ ഈ lrmΔ എന്നത് എന്താണെന്നു നോക്കുന്നതാണ് ഈ ഫിഗർ 44 ൽ കാണിച്ചിരിക്കുന്ന സർക്യൂട് നോക്കുക ഇവിടെ ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് Rab എത്രയെന്നു കണ്ടെത്തുക അതോടൊപ്പം അതിന്റെ തന്നെ ആകെ പവർ ഈ കേസിൽ നമുക്ക് കാണേണ്ടത് ഇതാണ് ടെർമിനൽ a പിന്നെ ഇത് b ടെർമിനൽ പിന്നെ വോൾടേജ് സോഴ്സ് തന്നിരിക്കുന്നു നമുക്ക് കണ്ടെത്തേണ്ടത് ഈ Rab എന്ന ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് ആണ് അത് എങ്ങനെ ചെയ്യും ഇനി 10 പിന്നെ 6Ω എന്നിവ ഇവിടെ സീരീസ് ആണ് അപ്പോൾ അത്10 16 അപ്പോൾ ഈ 10 പിന്നെ 6 എന്നിവ സീരീസ് ആണ് അത് 16 വോൾട് ആയിരിക്കും അതിനു ഈ 48 എന്നത് പാരലൽ ആണ് അപ്പോൾ 16 ||48 അത് അപ്പോൾ 1648 16 48 Ω ആണ് അടുത്തതും അത് തന്നെ ഞാൻ അത് ക്ലീൻ ആക്കുന്നു ഈ 10 6 എന്നിവ നോക്കുക ഇത് 48 ഞാൻ ആദ്യമേ പറഞ്ഞു ഈ 10 ഉം 6 ഉം സീരീസ് ആണ് അപ്പോൾ അത് 16 പിന്നെ അതിനു പാരലൽ ആണ് ഈ 48 അതിനാൽ ഇത് 48 പിന്നെ ഇത് 16 അത് രണ്ടും പാരലൽ അതിന്റെ ഇക്വിവലെന്റ് എന്നത് 12 Ω ആണ് അപ്പോൾ ഈ സർക്യൂട് എന്നത് ഈ 12 Ω ഇവിടെ വന്നു പിന്നെ ഇത് ഈ 18 Ω നു സീരീസ് ആണ് എന്തെന്നാൽ ഇവിടെ ഈ 18 Ω ഉണ്ട് ഇവിടെ 12 Ω പിന്നെ 18 Ω പിന്നെ ഇവ ഈ 15 Ω നു പാരലൽ ആണ് അപ്പോൾ അത് 153015 30 അത് 10 Ω ആണ് അപ്പോൾ പവർ എന്നത് v2 Rab ആണ് എന്തെന്നാൽ ഇത് യഥാർത്ഥത്തിൽ Rab ആണ് അത് ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് എന്തെന്നാൽ ഇത് ടെർമിൻൽ a പിന്നെ ഇത് ടെർമിനൽ b അപ്പോൾ അതാണ് ഇക്വിവലെന്റ് റെസിസ്റ്റൻസ് Rab അപ്പോൾ ഈ Rab എന്നത് 30Ω ആണ് ഇത് അപ്പോൾ 10 Ω ഞാൻ ഇത് ക്ലീൻ ആക്കുകയാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ 40 വാട്ട് ആണ് ഇനി അടുത്ത സ്റ്റേജ് ഇനി ഈ lrmΔ എന്നതിനെ ഒരു തുല്യ നെറ്റ്വർക്ക് ആയി പരിവർത്തനം ചെയ്യുക ഇവിടെ Ra എന്നത് തന്നിട്ടുണ്ട് അത് 15 Ω ആണ് പിന്നെ Rb 20 Ω പിന്നെ Rc നമുക്ക് അതിനെ lrmΔ ആക്കേണ്ടതാണ് ഇത് ഇവിടെ വരച്ചിരുന്നു ഇവിടെ ഈ abc എല്ലാം തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് 25 Ω ആണ് പിന്നെ 15 Ω പിന്നെ 20 Ω ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇനി നാം ഇവിടെ ഈ 4546 പിന്നെ 47 എന്നിവ ഉപയോഗിക്കുക അപ്പോൾ a എന്നത് Rb Rc Ra Rb Rc Ra Rb Rc എല്ലാം തന്നിട്ടുണ്ട് അത് അടുത്തുള്ള പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ Ra Rb Rc എന്നത് തന്നെ ആണ് അപ്പോൾ അത് Ra എന്നത് Rb Rc സോറി Rb Rc ബൈ R Rb Rc അത് 20 2515 20 60 എന്നതാണ് ഇവിടെ ഡിനോമിനേറ്റർ 60 ആണ് അപ്പോൾ ഇത് 25 a Ω അതുപോലെ a Rc Ra പിന്നെ ഇവിടെ ഡിനോമിനേറ്റർ എന്നത് സ്ഥിരമാണ് അത് 25 15 60 ആണ് അപ്പോൾ 25 ബൈ 4 സോറി അത് R a Ra ബൈ Rb ഇവിടെയും ഡിനോമിനേറ്റർ എന്നത് സ്ഥിരമാണ് അപ്പോൾ ആകെ 60 അപ്പോൾ 15 20 ബൈ 6 അത് 5Ω ആണ് അതാണ് lrmΔ പരിവർത്തനം ഇനി a a R a lrmഎടുക്കുക അത് Δ ലേക്ക് കൺവെർട് ചെയ്യാൻ നോക്കുക നമുക്കെ Ra Rb Rc എന്ന അതെ വാല്യൂ തന്നെ ലഭിക്കും ഇനി മറ്റൊരു കാര്യം അത് T നെറ്റ്വർക്ക് ന്റെ പരിവർത്തനം ആണ് ഇതാണ് ഒരു T നെറ്റ്വർക്ക് എന്നത് ഈ ഫിഗർ 48 ൽ ആണ് ഈ T നെറ്റ്വർക്ക് ഇതിനെ നാം lrmΔ എന്നാണ് വിളിക്കുന്നത് ഇത് a b പിന്നെ c ഇത് ഒരു T നെറ്റ്വർക്ക് ആണ് a a പിന്നെ R a എല്ലാം തന്നിരിക്കുന്നു അത് 10 20 പിന്നെ 30Ω എന്നിവ ആണ് ഇനി നാം ഇതിനെ Δ ആക്കി മാറ്റുവാൻ ആണ് നോക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ R a ആണ് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു അതായതു നമ്മൾക്ക് ഇത് Δ ആക്കി മാറ്റുകയാണ് വേണ്ടത് അപ്പോൾ ഈ Ra എന്നത് നാം അത് എടുക്കുന്നു അത് എന്താണ് എല്ലാ പ്രോഡക്റ്റും അത് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് R അത് നാം കണ്ടു ഇതിലും അത് തന്നെ ഒരു മിനിറ്റ് ഞാൻ ഒരു തെറ്റും ഇവിടെ വരുത്തരുത് ഇത് R a ഇപ്പോൾ ഇത് a പിന്നെ ഇത് r a അപ്പോൾ ഇത് തന്നിരിക്കുന്നു ഇത് നമുക്ക് lrmΔ ആക്കി മാറ്റണം ഇവിടെ Ra r a ന്യൂമറേറ്റർ എന്നത് ഒന്ന് തന്നെ ആണ് അത് ഡിവൈഡഡ് ബൈ ഈ ഓപ്പോസിറ്റ് ടെം അത് പോലെ Rb Rc എന്നീ വാല്യൂ കളും ലഭിക്കുന്നതാണ് ഇത് ലളിതമായി കണക്കു കൂട്ടാ൦ ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇനി ഈ ഇക്വേഷൻ 49 50 എന്നിവ നോക്കുക അതോടൊപ്പം 51 Ra a a a R a R a 1 ബൈ a അത് 10 20 20 30 30 10 ഡിവൈഡഡ് ബൈ 10 അത് 110 Ω അതുപോലെ Rb ഇതിലും ഈ ന്യൂമറേറ്റർ എന്നത് മാറ്റമില്ല അത് ഡിവൈഡഡ് ബൈ a 20 അത് 55Ω അടുത്തതും അങ്ങനെ തന്നെ അപ്പോൾ അത് 110 ബൈ a Ω ഇത് മറ്റൊരു സർക്യൂട് ആണ് അത് ഈ ഫിഗർ 50 ൽ കൊടുത്തിരിക്കുന്നു ഇവിടെ Rab എന്നത് കണ്ടെത്തുക ഇവിടെ ചെറിയ ഒരു തെറ്റ് സംഭവിച്ചു ഇതിൽ നമുക്ക് കണ്ടു പിടിക്കേണ്ടത് ഈ Rab ആണ് നാം അത് അറിയുന്നതാണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നു ഞാൻ ഈ Rab കട്ട് ചെയ്യുന്നു അതായതു ഇതാണ് ഈ Rab ഈ ചിത്രത്തിൽ ഞാൻ തെറ്റി ആണ് ഇവിടെ മാർക്ക് ചെയ്തത് ഇതിൽ ഈ RΩ ആണ് കണ്ടെത്തേണ്ടത് ഇവിടെ കറന്റ് I പിന്നെ വോൾടേജ് സോഴ്സ് എന്നത് 50 അപ്പോൾ 24 Ω 20 Ω പിന്നെ 10 Ω റെസിസ്റ്റർ അത് ലളിതമായി lrmΔ കണക്ഷൻ ആണ് 20 Ω 24 20 പിന്ന്നെ 10 ഈ lrmΔ നെറ്റ്വർക്ക് ഭാഗം എന്നത് എന്നിങ്ങനെ ആകാം ഇത് അടിസ്ഥാനപരമായി lrmΔ ആണ് എന്തെന്നാൽ ഈ c യും b യും ഇങ്ങനെ ആക്കിയാൽ ഇത് ഒരു lrmΔ ആകും ഇത് ഒരു സ്കയർ പോലെ ആണ് നിർമിച്ചിരിക്കുന്നത് എന്നാൽ ഇത് ഒരു lrmΔ ആണ് എന്തെന്നാൽ ഇവിടെ ഇങ്ങനെ നമുക്ക് ആക്കി വെക്കാം ഇത് c പിന്നെ ഇത് Rc ഇത് ഒരു ടെർമിനൽ ഇവിടെ ഞാൻ ഡാഷ് ആക്കിയാൽ പിന്നെ പ്രശ്നം ഇല്ല അതിനാൽ ഇവിടെ ഡാഷ് ആക്കുന്നു ഇത് 10 Ω പിന്നെ ഇത് 30 Ω പിന്നെ ഇവിടെയും 30 Ω അത് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഒരു 50 Ω ഇത് യഥാർത്ഥത്തിൽ lrmΔ ആണ് അതിനാൽ 10 24 20 അതിനെ കൺവെർട് ചെയ്യണം ഇവിടെ വാല്യൂ നേരെ തന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു ഇത് ചെയ്യാൻ എളുപ്പമാണ് അത് അങ്ങനെ ആക്കിയാൽ ഇവിടെ നമുക്ക് 8 888 എന്ന് കിട്ടും എന്തെന്നാൽ ഇത് ഇങ്ങനെ ചെയ്താൽ ഉടനെ തന്നെ നാം ഈ 24 20 എന്നിവയും Δ യുടെ ഭാഗം ആണ് ഇപ്പോൾ ഇത് 1a ആയി മാറും പിന്നെ ഇത് aa Ω ആണ് അതിനു ശേഷം നാം മനസ്സിലാക്കും ഇവ സീരീസ് ആണ് പിന്നെ മറ്റൊരു കാര്യം ഈ 8 88 എന്നതും വരും പിന്നെ 4 44 എന്നതും വരും ഇത് ഈ Δ കൺവെര്ഷന് ശേഷം ആണ് ഇത് മറ്റേ ഭാഗം അതും ഈ 8 444 Ω എന്നത് സീരീസ് ആണ് പിന്നെ ഈ 1a a0 അതോടൊപ്പം ഈ 50 ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്യുക നാം ഇത് ഇവിടെ Δ ആക്കുകയാണ് ഇതിനെ കുറിച്ച് മറന്നു കളയുക ഇത് 10 ഞാൻ ഇത് ഇങ്ങനെ 10Ω ആക്കുമ്പോൾ ഇത് r a എന്ന് കരുതുക അപ്പോൾ ഈ 1a എന്നത് a0 ക്കു സീരീസ് ആയിരിക്കും പിന്നെ അത് 40 ക്കും സീരീസ് ആണ് നമുക്ക് ഇവിടെ 4 പോയിന്റുകൾ ആണുള്ളത് നാലു 8 88 കൾ ഇനി അത് എത്രയാണ് എന്നതാണ് കണ്ടെത്തേണ്ടത് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു ഇവിടെ ഈ 2 പിന്നെ ഈ 2 പിന്നെ ഈ 2 എണ്ണവും പാരലൽ ആണ് അതിന്റെ ഇക്വിവലെന്റ് നിർമിക്കുക 1a 4 4 ആണ് അപ്പോൾ 17 അപ്പോൾ ഈ ഇക്വിവലെന്റ് എന്നത് 22 555 Ω ആണ് ഇത് ഈ 888 50 a അപ്പോൾ 5a 70a അത് ഡിവൈഡഡ് ബൈ a8 888 5a 70a അപ്പോൾ അത് 22 555 Ω ആണ് എന്തെന്നാൽ ഇത് പാരലൽ ആണ് എന്തെന്നാൽ ഇത് ഒരു കോമൺ നോട് ആണ് ഞാൻ ഇത് ക്ലീൻ ആക്കുന്നു അപ്പോൾ ഈ 2 17 44 കൂട്ടുക നാം കണ്ടെത്തും അത് 40 Ω ആണ് ഇനി ഈ 50 ബൈ 40 വോൾട് ഇതൊരു 50 വോൾട് സോഴ്സ് ആണ് ഇവിടെ കറന്റ് എന്നത് 1 25 ആംപിയർ ആണ്